ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന് ഞാൻ തമിഴ്നാട്ടിലെ സുനാമി പുനർനിർമ്മാണത്തെക്കുറിച്ച് രണ്ട് ഭാഗങ്ങളായി ചർച്ച ചെയ്യാൻ പോകുന്നു ഞാൻ ഈ പ്രഭാഷണത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു കാരണം ഇത് എന്റെ ഡോക്ടറൽപഠനകാലത്ത് ഞാൻ നടത്തിയ എന്റെ സ്വന്തം ഗവേഷണമാണ് ആദ്യത്തെ ഭാഗത്തു നമ്മൾ പറയുന്നത് മെത്തോഡോളജിക്കൽസമീപനത്തെ കുറിച്ചാണ് വിവിധ സമീപനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അത് എങ്ങനെ ഫ്രെയിം ചെയ്തു അത്തരം കാര്യങ്ങളിൽ ഞാൻ ഏത് തരത്തിലുള്ള ഫ്രെയിംവർക്ക് ആണ് പ്രവർത്തിച്ചത് രണ്ടാം ഭാഗത്തിൽ യഥാർത്ഥത്തിൽ കേസ് പഠനങ്ങളെക്കുറിച്ചും എന്റെ നിരീക്ഷണങ്ങളെക്കുറിച്ചും കണ്ടെത്തലുകളെക്കുറിച്ചും കേസ് സ്റ്റഡിസമീപനത്തിലൂടെ എനിക്ക് എന്ത് തരത്തിലുള്ള ധാരണയാണ് ലഭിച്ചത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനാൽ നമുക്ക് ഒന്നാം ഭാഗത്തിൽ നിന്ന് ആരംഭിക്കാം ഈ സുനാമി പുനർനിർമ്മാണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ദുരന്തമേഖലയിൽ എന്റെ യാത്ര എങ്ങനെ ആരംഭിച്ചു എന്നതിന്റെ ഒരു അവലോകനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് ഫോട്ടോകളും എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഫോട്ടോകളിൽ ഒന്നാണ് വാസ്തവത്തിൽ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ യാത്രയും മറ്റൊരു വഴിത്തിരിവിലേക്ക് മാറിയപ്പോൾ ഉള്ളതാണ് നിങ്ങൾ കാണുന്ന വലതുവശത്തുള്ള ഫോട്ടോ അത് മറാത്ത്വാഡ മേഖലയിലെ ലാത്തൂർ ഭൂകമ്പം റിക്കവറി യിൽപുനർനിർമ്മിച്ച വീടുകൾ ആണ്1993 ക്ക് മുമ്പും 1993 ലും ഇടതുവശത്തു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഗുജറാത്തിലെ ഭൂകമ്പത്തിന്റെ റിക്കവറിയിൽ നിർമ്മിച്ച നിരവധി ജിയോഡെസിക് ഡോമുകൾആണ് ലാത്തൂർ ഭൂകമ്പം വീണ്ടെടുക്കുന്നതിന്റെ ഈ ഫോട്ടോ കണ്ടപ്പോൾ കുറച്ച് നാളുകൾക്കു ശേഷം ഞാൻ ഈ പ്രത്യേക സൈറ്റുകൾ സന്ദർശിച്ചു ഇന്നും ഈ ഹൌസിംഗ് ഉൽപ്പന്നങ്ങളിൽ പലതും അവ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നു അധികമാരും ഈ വീടുകൾ കൈവശപ്പെടുത്തിയിട്ടില്ല അന്ന് എന്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ചോദ്യം വളരെ മികച്ച സാങ്കേതിക ഇൻപുട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ വീടുകളിൽ താമസിക്കാത്തത് എന്നാണ് എന്നാൽ RCC സ്ട്രക്ചറുകൾ ജിയോഡെസിക് ഡോംസ് എന്നാൽ കമ്മ്യൂണിറ്റികൾ ഇത് എടുക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചതെന്താണ് ഈ ചോദ്യം എന്റെ മനസ്സിൽ വേരൂന്നിയതാണ് ഇത്തരത്തിലുള്ള ആളില്ലാത്ത അവസ്ഥയ്ക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ എന്റെ തീസിസ്തയ്യാറാക്കി പിന്നീട് ഗുജറാത്തിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായികമ്മ്യൂണിറ്റികൾസാംസ്കാരിക തലത്തിൽ എങ്ങനെ വേവലാതിപ്പെടുന്നുവെന്നും പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് അവർ ചില പ്രീഫാബ് ഇൻപുട്ടിൽസന്തുഷ്ടരല്ലാത്തത് അത് കോൺക്രീറ്റ് ഘടനകളാണെങ്കിലും എന്തുകൊണ്ടാണ് ആളുകൾ സന്തോഷിക്കാത്തത് അവർ അവരുടെ കുടുംബത്തെയും ഉപജീവന ആസ്പെക്ട് നെയും എങ്ങനെയാണ് നോക്കികൊണ്ടിരുന്നത് അങ്ങനെ അത് എന്റെ മനസ്സിൽ മറ്റൊരു മാനം തുറന്നു പരമ്പരാഗത വാസ്തുവിദ്യ പരമ്പരാഗത ചുറ്റുപാടുകൾ എന്നിവ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങി അതോടൊപ്പം ഞാൻ ഓറോവില്ലിൽ കുറച്ചുകാലം ജോലി ചെയ്തു അത് ആർക്കിടെക്റ്റുകൾ കമ്മ്യൂണിറ്റികൾക്കൊപ്പം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അതിലൂടെ വെർണാക്കുലർ ആർക്കിടെക്ചറിലെ ഇന്റർനാഷണൽ സ്റ്റഡീസിൽഓക്സ്ഫോർഡ് ബ്രൂക്സിൽബിരുദാനന്തര ബിരുദം നേടി അത് 2004 ൽ തമിഴ്നാട്ടിൽ സുനാമി ആഞ്ഞടിക്കുന്ന സമയമായിരുന്നു സുനാമിക്ക് തൊട്ടുപിന്നാലെ തമിഴ്നാട്ടിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ പുനരധിവാസത്തിന്റെ ഭാഗത്തെക്കുറിച്ച് ഞാൻ എന്റെ തീസിസ് ചെയ്തു തുടർന്ന് കമ്മ്യൂണിറ്റിയും വികസനഗ്രൂപ്പുകളും തമ്മിലുള്ള പരസ്പരബന്ധം ശരിയാക്കാൻ ഞാൻ പ്രവർത്തിച്ചു പുനരധിവാസ ഘട്ടത്തിൽ ഞാൻ ഞാൻ നേരിട്ട ഒരു ഒന്നാണിത് പിന്നീട് ഞാൻ കാൽഡിക്കോട്ടിലെബെൻഫീൽഡ് അഡ്വാൻസ്ഡ് ടിംബർ ടെക്നോളജീസിൽ ഡിസൈൻ ടെക്നീഷ്യനായിജോലി ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീർ ഭൂകമ്പ പുനരധിവാസ പ്രക്രിയയിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രോജക്റ്റ് ലഭിച്ചു യുഎൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ചില വീടുകൾ നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു ടിമ്പർ ഫ്രെയിം ഹൌസുകൾഉപയോഗിച്ച് ഒരു പ്രീഫാബ് ഹൌസ് അവരുടെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി അതുപോലെ തന്നെ ദുരിതബാധിത പ്രദേശങ്ങളും അതിനാൽ അവിടെ ഞാൻ ഫ്ളഡ് പാക്ക്സമീപനങ്ങളിൽ ജോലി ചെയ്തു അവിടെ ഞാൻ വീടുകൾ ഡിസൈൻ ചെയ്തു കശ്മീരിന്റെ കാശ്മീർ ഭാഗത്തേക്ക് ഷിപ്പിംഗ് നടത്തുകയും ഫ്ലാറ്റ് പായ്ക്ക്സമീപനങ്ങൾIKEA ഫർണിച്ചറുകൾ പോലെ ഫ്ലാറ്റ് പാക്കിലാണ് ഡെലിവർ ചെയ്തത് അങ്ങനെയാണ് ഞാൻ ചെയ്തത് അവിടെ ഞാൻ എന്റെ വില്ലൻ വേഷം തിരിച്ചറിഞ്ഞു അതായത് അവിടെ ഗുണഭോക്താക്കൾ ആരാണെന്ന് എനിക്കറിയില്ല ഒരു സൈറ്റ് എന്താണെന്ന് എനിക്കറിയില്ല അവിടെയുള്ള രൂപരേഖ എന്താണെന്ന് എനിക്കറിയില്ല അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അതിനാൽ ക്ലയന്റ് ആഗ്രഹിക്കുന്നതും ഞാനും തമ്മിൽ ഒരു ഗാപ് വന്നു വ്യവസായം എന്താണ് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കൾ എന്താണ് നോക്കുന്നത് ഇവിടെയാണ് ഞാൻ പിഎച്ച് ഡി ഗവേഷണത്തിനുള്ള എന്റെ നിർദ്ദേശം വികസിപ്പിച്ചെടുത്തത്ലണ്ടനിലെവെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിൽ നിന്ന് എനിക്ക് ധനസഹായം ലഭിച്ച എന്റെ ഡോക്ടറൽഗവേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ എന്റെ പ്രാഥമിക തിയറികൾ ബേസിക് ടെർമിനോളജിയിൽ ആയിരുന്നു കാരണം നമ്മൾ പല വാക്കുകളും ദൈനംദിന അർത്ഥത്തിൽ വളരെ അയഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് വികസനം വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വികസനത്തെ നിർവചിക്കാം അതിനാൽ എന്റെ ഗവേഷണത്തിൽ ഞാൻ വികസന വശം നോക്കിയത് ഒരു വശത്ത് സാധാരണ വികസന പ്രക്രിയയാണ്ദുരന്തത്തിന് മുമ്പ്മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ അവരുടെ കമ്മ്യൂണിറ്റികളുടെയും ജലവിതരണം സേവനങ്ങൾ ആരോഗ്യ മേഖല എന്നിവയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു അപ്പോൾ അതാണ് സാധാരണ വികസന പ്രക്രിയ പിന്നെ രണ്ടാം ഭാഗം ദുരന്തമാണ് ദുരന്തം നേരിടുമ്പോൾ വിവിധ എൻജിഒകൾ സഹായഹസ്തവുമായി മുന്നോട്ടുവരുമ്പോൾ അവർ വിവിധ ഫണ്ടിംഗ് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നു അത് ഒരു ദുരിതാശ്വാസ ഘട്ടമാകാം അത് ഒരു പുനരധിവാസ ഘട്ടമാകാം അല്ലെങ്കിൽ അത് റീഹാബിലിടേഷൻ സ്റ്റേജ് റീഹാബിലിറ്റേഷൻആവാം അത് ദീർഘകാലാടിസ്ഥാനത്തിലാകാം അത് റിക്കവറി പുനർനിർമ്മാണ ഘട്ടങ്ങൾ ഏറ്റെടുക്കുന്നു അതിനാൽ ഇവിടെ അഭിനേതാക്കൾ വളരെ വ്യത്യസ്തരാണ് അവർ വളരെ താൽക്കാലിക സ്വഭാവമുള്ളവരാണ് വികസനം താൽക്കാലിക സ്വഭാവമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ഘട്ടം പൂർത്തിയായിക്കഴിഞ്ഞാൽ പുനരധിവാസ ഘട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് താൽക്കാലിക ഭവനങ്ങളിൽ താമസിപ്പിച്ച് ദീർഘകാലത്തേക്ക് അവർ ദൃശ്യമായ ഭൂമിയുടെ സാധ്യതയും ഉചിതമായ എൻജിഒ കോ ഓർഡിനേഷനുകളും ഉചിതമായ സാമ്പത്തിക വിസിബിലിറ്റികളും നോക്കുന്നു അവിടെയാണ് ദുരന്താനന്തര വികസന പ്രക്രിയ പ്രവർത്തിക്കുന്നത് അത് രണ്ട് വർഷവും മൂന്ന് വർഷവും നീണ്ടുനിൽക്കുന്ന പ്രക്രിയയായിരിക്കാം പോകുന്നതിന് മുമ്പ് അതിന്റെ പിന്നിലെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം ഞാൻ അപകടവും ദുരന്തവും നോക്കാൻ തുടങ്ങി അതിന്റെ അടിസ്ഥാനപരമായ വ്യത്യാസം എന്തെന്നാൽ അപകടം അത് ഒരു പ്രകൃതി പ്രതിഭാസമാണ് അത് ഒരു വെള്ളപ്പൊക്കം ആകാം അത് ഒരു ചുഴലിക്കാറ്റ് ആകാം അല്ലെങ്കിൽ അത് ഭൂകമ്പമാകാം അത് ഒരു മണ്ണിടിച്ചിലാകാം പക്ഷേ പിന്നീട് എന്താണ് അപകടത്തെ ഒരു ദുരന്തമാക്കുന്നത് അതിനാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജപ്പാനിൽ നിങ്ങൾക്ക് 9 റിക്ടർ സ്കേൽ ലഭിക്കുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിങ്ങൾക്ക് എട്ട് റിക്ടർ സ്കെയിലാണ് ലഭിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ 7 5 സ്കെയിൽ പോലും വലിയ ആഘാതം സൃഷ്ടിക്കുന്നു അതിനാൽ ഇത് കേവലം ഒരു സ്വാഭാവിക പ്രതിഭാസമല്ല അത് സ്വാധീനം ചെലുത്തുന്നത് ദുർബലതയാണ് അത് ആളുകളുടെ ദുർബലതയാണ് സൊസൈറ്റി കമ്മ്യൂണിറ്റിഅഭിമുഖീകരിക്കാൻ കഴിയാത്തവർ അവർ ആ പ്രത്യേക അപകടത്തെയും അതിന്റെ ആഘാതത്തെയും നേരിടുന്നവരാണ് അതിനാൽ അവിടെയാണ് അപകടസാധ്യതയും ദുർബലതയും ഡിസാസ്റ്റർ റിസ്കിലേക്ക് പോകുന്നത് വാസ്തവത്തിൽ രോഹിത് ജിഗ്യാസുവിന്റെ രോഹിത് ജിഗ്യാസുവിന്റെ കൃതിയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചപ്പോൾ അത് എന്റെ പഠനത്തിന് വീണ്ടും കണ്ണുതുറപ്പിക്കുന്നതാണ് അവിടെ അദ്ദേഹം എനിക്ക് ബ്ലെയ്ക്കിയുടെ കൃതികൾ Blaikies workകാനണിന്റെയും ഇയാൻ ഡേവിസിന്റെ Canons and Ian Davissകൃതികൾ എന്നീ സാഹിത്യങ്ങളിലേക്ക് ദിശാബോധം നൽകി ഈ ദുർബലത ദുരന്തങ്ങളും അപകടസാധ്യതകളും എങ്ങനെ പ്രവർത്തിച്ചു എന്നതിന് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ദുരന്തത്തിന് തൊട്ടുപിന്നാലെയുള്ള പ്രതികരണമാണ് പിന്തുടരുന്ന ശരിയായ വികസനം ദുർബലത ഘടകം വളരെ കുറവായിരിക്കണം എന്നാണ് തീരുമാനിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ ദുരന്ത പ്രതികരണം വികസന വശത്തിനുള്ളിലാണ് അവിടെയാണ് ദുർബലത ഘടകം കൂടുതലായി നിങ്ങൾ കാണുന്നത് അത് നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിനുള്ളിലാണ് അതിനെ ലൂയിസ്വിളിക്കുന്നത് വെറുമൊരു സൈക്കിൾ എന്നല്ല ബൈ സൈക്കിൾഎന്നാണ് ബൈസൈക്കിളിന്റെ മുൻ ചക്രം വികസനത്തിലേക്ക് തിരിയുമ്പോൾ അപകടസാധ്യത കുറയണമെന്നില്ല അത് മറ്റൊരു ദിശയിലേക്കും തിരിയാം കാരണം അതിനെ പുഷ് അഥവാ പുൾ ചെയ്യുന്ന മറ്റു ഘടകങ്ങളുണ്ട് അതുപോലെ ഞാൻ നിർവചിച്ചതുപോലെ ഒരു വികസനം ദുരന്തത്തിന് മുമ്പുള്ള വികസനം ദുരന്ത സമയത്തും ദുരന്താനന്തരവും ദുർബലതയെയും ഞാൻ തരം തിരിച്ചിട്ടുണ്ട് ദുരന്തത്തിന് മുമ്പുള്ള ദുബലത അതായത് സുനാമി റിക്കവറിയുടെ പ്രാരംഭ ഘട്ടത്തിൽ ഞാൻ എടുത്ത ഫോട്ടോയാണിത്ദുരിതാശ്വാസ ഘട്ടത്തിൽ അവർക്ക് അവിടെ നിലവിൽ ജലസ്രോതസ്സുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുനിസിപ്പൽ ടാപ്പുകളിൽ നിന്നും വെള്ളമെടുക്കാൻ ആളുകൾ കോർണറുകളിൽഒത്തുകൂടുമായിരുന്നു അവർക്ക് സർവീസ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകം തന്നെ ദുർബലമായ സാഹചര്യങ്ങൾ അവിടെയുണ്ട് അതിനാൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാലും അവർ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാൽ അതേസമയം ദുരന്തത്തിന്റെ ഫലമായുണ്ടാകുന്ന കേടുപാടുകളിൽ മനുഷ്യജീവനും സ്വത്തു നാശവും ഉണ്ടാവുന്നു ഒപ്പം അടിസ്ഥാന സൌകര്യങ്ങളുടെ നാശവും ഉണ്ടാവുന്നു അതേസമയം ദുരന്താനന്തര അപകടസാധ്യതയിൽ 2007 ന് ശേഷമുള്ള അതേ സ്ഥലത്തിന്റെ ഫോട്ടോയാണിത് ഏകദേശം രണ്ട് വർഷത്തിനും രണ്ടര വർഷത്തിനും ശേഷവും ഇപ്പോഴും ഈ അടിസ്ഥാന സേവനങ്ങൾക്കായി ആളുകൾ ബുദ്ധിമുട്ടുന്നു അവിടെയാണ് നമ്മൾ ഈ ദുരന്താനന്തര സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അതിനാൽ ചിലപ്പോൾ റിക്കവറി പ്രക്രിയയുടെ ഫലമായി ദുർബലത കൂടുകയോ കുറയുകയോ ചെയ്യുന്നു അങ്ങനെയാണ് അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് തുടർന്ന് ഒരാൾക്ക് എങ്ങനെ അപകടസാധ്യത വിലയിരുത്താമെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞങ്ങൾ ദുർബലതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാല് വ്യത്യസ്ത തരം ദുർബലത അനാലിസിസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ആദ്യത്തേത് ടെക്നോ സെൻട്രിക് അനാലിസിസ് ആണ് നേരത്തെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾഅത് വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ ആകട്ടെ എഞ്ചിനീയറുടെസംഘം ഈ സൈറ്റ്സന്ദർശിക്കാറുണ്ടായിരുന്നു ഒപ്പം എവിടെയാണ് വിള്ളലുകൾ വരുന്നതെന്നും എവിടെയാണ് ജോയിന്റുകൾ എന്നും എവിടെയാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രശ്നങ്ങൾ എന്നും അവർ തിരിച്ചറിയും അതായത് വീഴ്ചകളുടെയും ബലഹീനതകളുടെയും സാങ്കേതിക പരിശോധനയിലൂടെ അവർ കെട്ടിടങ്ങളുടെ ശാരീരിക ദുർബലത പരിശോധിക്കുന്നു ഇവയ്ക്ക് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും അവർ നോക്കുന്നു പിന്നീട് എൺപതുകൾക്ക് ശേഷം ഫ്രെഡറിക് കോന്നിയുംബന്ധം സ്ഥാപിച്ചു ദുരന്തങ്ങൾക്കും വികസനത്തിനും ഇടയിൽ ഇത് സോഷിയോളജിസ്റ്റുകളുടെയും sociologistsആന്ത്രോപോളജിസ്റ്റുകളുടെയുംശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു ഓരോ തവണയും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടാർഗെറ്റ് ഗ്രൂപ്പിനെ ബാധിക്കുന്നതായി അവർ പലപ്പോഴും നിരീക്ഷിച്ചു അതിനാൽ ഇത് ഒരു സാമൂഹിക ഗ്രൂപ്പിന്റെ ദുർബലതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാമൂഹിക ദുർബലതയുടെ കാരണങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്നു മൂന്നാമത്തെ ആസ്പെക്ട് ഒരു സാഹചര്യ വിശകലനം ആണ് അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഏതുതരം ഗ്രൂപ്പിൽ പെടുന്നു എന്നതിനെ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നാൽ ദൈനംദിന ജീവിതത്തിന്റെ സ്വഭാവവും അവരുടെ യഥാർത്ഥ സാഹചര്യവും എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ അത് വളരെ അടുത്തിടെ മാറിയിരിക്കാം അത് ഡെവലപ്മെന്റ് ഇൻപുട്ടിലൂടെയാകാം അപ്രതീക്ഷിതമായ വ്യത്യസ്ത രൂപത്തിലുള്ള ദുർബലതയുടെ ഫലമായുള്ള ദുർബലത മൂലമാകാം അങ്ങനെ സാഹചര്യം എങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു അവസാന ആസ്പെക്ട് ഒരു കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള വിശകലനമാണ് കമ്മ്യൂണിറ്റികളും ഗ്രൂപ്പുകളും കേടുപാടുകൾക്കും നഷ്ടങ്ങൾക്കും അവർ സ്വയം എക്സ്പോസ് ചെയ്യാൻ ദുർബലത എന്ന ആശയം ഉപയോഗിക്കുന്നു എൻജിഒകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടെയാണ് അതിനാൽ അവർ കമ്മ്യൂണിറ്റികളെ അവരുടെ സ്വന്തം പ്രശ്നങ്ങളെയും ഇഷ്യൂകളെയും കുറിച്ച് ബോധവാന്മാരാക്കാൻ ശ്രമിച്ചു അതിനാൽ പങ്കാളിത്ത സമീപനങ്ങളിലൂടെ ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ സമൂഹത്തെ ഇടപഴകിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെയാണ് മിക്ക എൻജിഒകളും പ്രവർത്തിക്കുന്നത് എന്നാൽ എന്റെ ഗവേഷണത്തിൽ ഞാൻ ഒരു ഗ്രൂപ്പല്ല ഞാൻ ഒരു എൻജിഒ യും അല്ല എന്നാൽ എല്ലാ ദിവസവും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു ഓരോ ദിവസവും കാര്യങ്ങൾ എങ്ങനെ മാറുന്നു ഞാൻ ഒരു ഏകാന്ത ഗവേഷകനാണ് ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നതിനാൽ ഞാൻ ഒരു സാഹചര്യ വിശകലനം ചെയ്തു സമ്മർദ്ദത്തിന്റെയും റിലീസിന്റെയും വിവിധ മോഡലുകൾ ഉണ്ട് ബ്ലെയ്ക്കി നിർദ്ദേശിച്ചതും ദുർബലത എങ്ങനെ പുരോഗമിക്കുന്നുവെന്നും അത് പറയുന്നുണ്ട് അവിടെ മൂലകാരണങ്ങൾ ഉണ്ട്അതിനെ PAR മോഡൽ എന്ന് വിളിക്കുന്നു അത് അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് പവർ സ്ട്രക്ക്ച്ചറുകളിലേക്കും വിഭവങ്ങളിലേക്കും ഉള്ള പരിമിതമായ ആക്സസ് ആകാം നിങ്ങൾക്ക് സ്വർണ്ണ ശേഖരം ഉണ്ട് നിങ്ങൾ സമ്പന്ന രാഷ്ട്രമാണെന്ന് അത് അർത്ഥമാക്കുന്നില്ല ഘാനയ്ക്ക് സ്വർണ്ണ ശേഖരമുണ്ട് തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നല്ല റിസോർസസ് ഉണ്ട് പക്ഷേ അവ വളരെ സമ്പന്നമല്ല സിങ്കപ്പൂരിന് ഒന്നുമില്ല എന്നിട്ടും എല്ലാം കൈകാര്യം ചെയ്യാൻ അവർ കഴിവുള്ളവർ ആണ് അതിനർത്ഥം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് കപ്പാസിറ്റികളെ കുറിച്ചാണ് എങ്ങനെയാണ് ഒരാൾക്ക് അധികാരത്തിലേക്കും പ്രവേശനത്തിലേക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിന് ആക്സസ്സ് ഇല്ല ചില ജെണ്ടറിന് ചില അസ്പെക്ടുകളിൽ പരിമിതമായ പ്രവേശനമുള്ള സൌദി പോലുള്ള രാജ്യങ്ങളിൽ അവിടെയാണ് നിങ്ങൾ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വിപണി പ്രാദേശിക സ്ഥാപനങ്ങൾ പത്രസ്വാതന്ത്ര്യം മാക്രോ ലെവലിൽ ഉള്ള ഫോഴ്സുകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന ഡൈനാമിക് പ്രഷറുകൾ അവിടെ ഉണ്ട് വാസ്തവത്തിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം കാരണം പലപ്പോഴും അപകടകരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്ന സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ആളുകൾ കുടിയേറുകയും ഗെട്ടോകളും ചേരികളും ഉണ്ടാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവർ അഗ്നിപർവ്വത സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കാൻ പ്രവണത കാണിക്കുന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് സമീപം താമസിക്കുന്നതിനെ അവർ ഭയപ്പെടുന്നു അങ്ങനെയാണ് ദാരിദ്ര്യവും അടിസ്ഥാന ഘടകങ്ങളിലൊന്നാവുന്നത് അവിടെയാണ് നമ്മൾ R എന്നത് HV ന് തുല്യമാണെന്നും അത് പലപ്പോഴും സുരക്ഷിതമല്ലാത്ത അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതിനാൽ അടിസ്ഥാനപരമായി അവിടെ അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്അവ എങ്ങനെ നാച്ചുറൽ ഹസാർഡ് പ്രതിഭാസത്തിന്റെ കൂടെ ഉണ്ടാവുന്ന ഡൈനാമിക് പ്രഷറുകൾ ആവുന്നു അവിടെ സുസ്ഥിരമായ ഉപജീവന ഫ്രെയിംവർക്കും ഉണ്ട് അത് 1997 ലെ വ്യത്യസ്ഥ മോഡൽആയ അസ്സറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പറയുന്നു അവർ അത് വികസിപ്പിച്ചത് അവരുടെ ഉപജീവനമാർഗ്ഗങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള അസ്സറ്റ് ആയുള്ള റിസോഴ്സസ് വ്യക്തികളോ ഗ്രൂപ്പുകളോ എങ്ങനെ സംഘടിപ്പിക്കുന്നു എങ്ങനെയാണ് അവരുടെ കഴിവുകൾ അവരെ എങ്ങനെ ഇടപെടാനും ലോകത്തെ മാറ്റാനും പ്രാപ്തരാക്കുന്നത് ഇത് കൂടാതെ ടോണി ലോയ്ഡ് ജോൺസും കരോൾ റക്കോഡിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസനവും ഈ അസറ്റുകളിലേക്കുള്ള പ്രവേശനത്തിലും ദുർബലതയുടെ പശ്ചാത്തലത്തിലും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതുപോലുള്ള ഭാവികളും ഉണ്ടെന്നും നിർദ്ദേശിച്ചു ഉപജീവന അവസരങ്ങളും നയങ്ങളും സ്ഥാപനങ്ങളും ഇവ യഥാർത്ഥത്തിൽ വ്യക്തിയെയോ ഗ്രൂപ്പുകളെയോ എങ്ങനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇവിടെ കുടുംബങ്ങളോ ഗ്രൂപ്പുകളോ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ആവശ്യത്തിന് മാത്രമല്ല എന്നതാണ് കാര്യം എന്നാൽ സാംസ്കാരിക ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ആളുകൾ ഫലങ്ങൾ നിയന്ത്രിക്കുന്നതും അവരുടെ ഉപജീവനമാർഗ്ഗം തിരഞ്ഞെടുക്കുന്നതും അവിടെയാണ് എന്റെ വാദപ്രതിവാദം ഉയരാൻ തുടങ്ങിയത് അതിനാൽ ഇതുവരെ സാംസ്കാരികവും നിർമ്മിത പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ഗവേഷണ കൃതികൾ ഉണ്ട് കൂടാതെ ദുർബലതയെയും വികസനത്തേയും കുറിച്ചുള്ള ഒരുപാട് സാഹിത്യങ്ങളും ഉണ്ട് ഫ്രെഡറിക് കുനിയുടെ കൃതികളും സാഹിത്യവും അവിടെ ഉണ്ട് നിങ്ങൾ ദുരന്തത്തെയും വികസനത്തെയും കൺസിഡർ ചെയ്യുന്നത് പോലെ എന്നാൽ സംസ്കാരത്തിന്റെ ദുർബലതയെയും വികസനവുമാവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ ഘടകങ്ങളെല്ലാം നോക്കാൻ ശ്രമിക്കുന്നത് ഞാൻ എന്റെ അന്തർലീനമായ വീക്ഷണത്തിൽ നിന്നാണ് നോക്കുന്നത് നിർമ്മിച്ച പരിസ്ഥിതി വീക്ഷണകോണിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ നിന്നും അങ്ങനെയാണ് ബോർഡിയുവിന്റെ കലച്ചറൽ ക്യാപിറ്റലിൽ Bourdieus cultural capitalനിന്ന് ആരംഭിക്കുന്ന വൈവിധ്യമാർന്ന സാഹിത്യങ്ങൾ ഞാൻ അവലോകനം ചെയ്യാൻ തുടങ്ങിയത് ഫ്രെയിമിംഗ് സ്ഥലങ്ങളിലെ കിം ഡോവിയുടെKim Doveysവർക്ക് നീൽ ലീച്ച്ന്റെ വർക്ക് റെജീന ലിമ്മിന്റെRegina Limsവർക്ക് അതിനാൽ എന്താണ് സംസ്കാരം എന്നതിനെക്കുറിച്ച് ഞാൻ ധാരാളം സാഹിത്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി ഞാൻ ചില സാഹിത്യങ്ങൾ സ്വീകരിക്കാൻ ശ്രമിച്ചു ദുരന്ത വികസന പ്രക്രിയയിൽ സംസ്കാരത്തിന്റെ പങ്ക് മനസിലാക്കാൻ എന്റെ ഗവേഷണത്തിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി അതിനാൽ ലിമ്മിന്റെLims സാംസ്കാരിക പരിസ്ഥിതിയുടെ മാതൃക ഞാൻ സ്വീകരിച്ചു മതം ഇക്കോളജിക്കൽ എൻവയോണ്മെന്റ് സമ്പദ്വ്യവസ്ഥ കുടുംബ ഘടന ബന്ധുത്വം ലിംഗപരമായ റോളുകൾ രാഷ്ട്രീയം സാംസ്കാരിക ഇടപെടൽ എന്നിവയുടെ ഒരുതരം മാട്രിക്സ് എന്നാണ് അവൾ അതിനെ വിളിക്കുന്നത് അതിനാൽ ഇവയെല്ലാം ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക ഘടനയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു അതുപോലെ Bourdieu ന്റെ തിയറി യെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇൻഹെറിട്ടഡ് ക്യാപിറ്റൽ ആയ കൾച്ചറൽ ക്യാപിറ്റൽഒബ്ജെക്റ്റിഫൈഡ് ക്യാപിറ്റൽ പാരമ്പര്യമായി ലഭിച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റൽ അത് അടിസ്ഥാനപരമായി നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ സാമൂഹികവൽക്കരണ പ്രക്രിയയിലൂടെയും നിങ്ങൾ നേടിയ ഗുണങ്ങളിൽ ഉൾച്ചേർന്നതാണ് എന്നിവയെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നാൽ ഒബ്ജെക്റ്റിഫൈഡിൽ നിങ്ങൾ കലയുടെ രൂപത്തിൽ എങ്ങനെ ഒബ്ജെക്റ്റിഫൈ ചെയ്യുന്നുആർക്കിടെക്ച്ചറിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒബ്ജെക്ടിഫൈ ചെയ്യാം അതിന്റെ സ്ഥലങ്ങളും സ്ഥാപനവും അക്കാദമിക് യോഗ്യതയുമായി ബന്ധപ്പെട്ടതാണ് അവിടെയാണ് ജനപ്രിയ സംസ്കാരങ്ങളുടെ വ്യത്യാസം വരുന്നത് ലീച്ച് തിയറി പറയുന്നത് സ്പേസ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് എങ്ങനെ ഒരാൾക്ക് സ്പേസ്സിനെ വിവരിക്കാൻ കഴിയും സ്പേസിനെ നിർവചിക്കുന്ന പ്രകടനംസ്ഥലത്തിന്റെ പ്രതിഫലനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആവർത്തിച്ചുള്ള പ്രകടനങ്ങൾ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലുംആധുനികവൽക്കരണത്തിലുംആഗോളവൽക്കരണത്തിലും ഒരാൾ നോക്കുന്നത്ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചുപോകണമെന്നില്ല കാരണം ആളുകൾ വികസിതരാണ്അവർ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു അവരുടെ ദൈനംദിന ജീവിതം നയിക്കാൻ പാരമ്പര്യം മതപരമായ പ്രമാണങ്ങൾ മറ്റ് ആചാരങ്ങളുടെ ശീലം നിരീക്ഷിക്കൽ എന്നിങ്ങനെ പ്രാദേശിക അറിവുകളെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല കാരണം ആളുകൾ അവരുടെ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ മറ്റു ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട് അതിനാൽ പാരമ്പര്യത്തിൽ നിന്ന് വിരുദ്ധമായ ഒരു ആസ്പെക്ട് കൂടി നിരീക്ഷിക്കേണ്ടത് ഇവിടെയാണ് പരമ്പരാഗത മോഡലിന്റെ വിവാദപരമായ ആസ്പെക്ക്റ്റുകളും അതിനാൽ എന്റെ ഗവേഷണത്തിൽ ഞാൻ കൾച്ചറിൽ നിന്ന് ആരംഭിച്ചുസാംസ്കാരിക ഗവേഷണത്തെ എങ്ങനെ നിർവചിക്കാൻ തുടങ്ങാം ഇവിടെ സംസ്കാരത്തെ നിർവചിക്കുന്നത് ഒരു സ്ഥലത്തെ മനുഷ്യന്റെ മൊത്തം അനുഭവങ്ങളുടെയും സ്വദേശിയമായി ശേഖരിച്ച അറിവുകളുടെയും ആകെത്തുക എന്നാണ് കാരണംഞാൻ നോക്കുന്നത് നിർമ്മിത പരിസ്ഥിതി വീക്ഷണകോണിൽ നിന്നാണ്കമ്മ്യൂണിറ്റികൾ അവരുടെ ജീവിതത്തിനും സ്ഥലങ്ങൾക്കും അർത്ഥം നൽകുന്നതിൽ ആശ്രയിക്കുന്നുആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തെ അതിജീവിക്കാനുള്ള ഒരു സമീപനം പതിവായി വികസിപ്പിക്കുന്നു അത് ദുരന്തത്തിന് മുമ്പുള്ള സാഹചര്യത്തിലായാലും ദുരന്താനന്തര സാഹചര്യത്തിലായാലും അതിനാൽ പ്രാധാനമായും എന്റെ വാദംമനുഷ്യത്വപരവും വികസനപരവുമായ നിലവിലെ ദുരന്താനന്തര കാലഘട്ടത്തിൽ പ്രാദേശിക സമൂഹങ്ങളുടെ സാംസ്കാരിക മാനങ്ങൾ എങ്ങനെ ഫലപ്രദമായും വേണ്ടത്ര അഭിസംബോധന ചെയ്യപ്പെടുന്നില്ല എന്നതിലാണ് ദുരന്തം ബാധിച്ച രണ്ട് സമുദായങ്ങൾക്കും അവരെ സഹായിക്കുന്ന മാനുഷിക വികസന ഏജൻസികൾക്കും ഇത് പ്രതികൂലമായി ബാധിക്കും എന്റെ ഗവേഷണ ചോദ്യം അവിടെയാണ് നിൽക്കുന്നത് ദുരന്താനന്തര റിക്കവറി പ്രക്രിയയിൽ സംസ്കാരത്തിന്റെ പങ്കും ദുർബലതയുമായുള്ള അതിന്റെ ബന്ധവും എങ്ങനെ മനസ്സിലാക്കാം പ്രത്യേകിച്ചും ദുരന്തം ബാധിച്ച പരമ്പരാഗത വാസസ്ഥലങ്ങളുടെ നിർമ്മിത പരിസ്ഥിതിയുമായി അതിനാൽ എന്റെ മെത്തോഡുകൾ രണ്ട് സബ്ജെക്ട് ഡൊമെയ്നുകളിൽ നിന്ന് മനസ്സിലാക്കാൻ തുടങ്ങി ഒന്ന് ഈ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് മോർഫോളജി യെ കുറിച്ച് ദുരന്തത്തിന് മുമ്പും ദുരന്തത്തിന് ശേഷവും സ്പേഷ്യൽ സ്വഭാവം എങ്ങനെ മാറിയിരിക്കുന്നു രണ്ടാമത്തെ ആസ്പെക്ട് അതിന്റെ സാംസ്കാരിക മാനം നോക്കുമ്പോൾ കൾച്ചറൽ ആന്ത്രോപോളജിയിൽ നിന്ന് ഞാൻ മെത്തോഡുകൾ വരയ്ക്കേണ്ടതുണ്ട് രണ്ട് വ്യത്യസ്ത പ്രവർത്തന മേഖലകളിൽ നിന്നുള്ള സമന്വയം അവിടെയാണ് അതായത് കൾച്ചറൽ ആന്ത്രോപോളജിയും മോർഫോളജിയുംപ്രത്യേകിച്ച് ദുരന്ത വികസന സെറ്റപ്പിൽ തിയറി ഓഫ് റെസ്പോൺസീവ് എൻവയോൺമെന്റിൽ ഉള്ള ഇയാൻ ബെന്റ്ലിയുടെ വർക്ക്Ian Bentley's workഞാൻ സ്വീകരിച്ചുഅവിടെ അദ്ദേഹം ഒരു സ്പേസ് എങ്ങനെ അളക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില ഗുണപരമായ സൂചികകളെക്കുറിച്ച് പറയുന്നു നമ്മൾ മോർഫോളജി യെ കുറിച്ചും സ്പേഷിയൽ സ്വഭാവത്തെ കുറിച്ചും സംസാരിക്കുമ്പോൾ ആ മാറ്റത്തെ എങ്ങനെ അളക്കാം എന്ന് മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഗുണങ്ങൾപെർമിയബിലിറ്റി ലെജിബിലിറ്റി വൈറ്റാലിറ്റി വറൈറ്റിറോബസ്റ്റ്നെസ് വിഷ്വൽ അപ്രോപ്രിയേറ്റ്നെസ് വ്യക്തിഗതമാക്കൽ പക്ഷെ പിന്നീട് ഞങ്ങൾ സ്പേസ് ടൈം ഫ്രെയിംവർക്ക് പരിഗണിക്കുമ്പോൾഞങ്ങൾ ഒരു സെറ്റിൽമെന്റിലേക്ക് നോക്കുക മാത്രമല്ല നിർമ്മിത പരിസ്ഥിതിയുടെ വിവിധ പാളികളിലേക്കും ഞങ്ങൾ നോക്കുന്നുകൂടുതലും അന്തർലീനമായ ടോപ്പോഗ്രഫിപ്രകൃതിദത്ത സംവിധാനം അത് അതിന്റെ പാരിസ്ഥിതിക ഭൂപ്രകൃതി ആണ് പൊതു ലിങ്കേജ് സിസ്റ്റം പ്ലോട്ടുകൾ കെട്ടിടങ്ങൾ ഘടകങ്ങൾ കാരണം ഈ ഇന്റർമീഡിയറ്റ് സ്പെയ്സുകൾ ഇവയാണ് നിർമ്മിച്ച പരിസ്ഥിതിയുടെ വിവിധ പാളികൾ വ്യത്യസ്ത ടൈം ആസ്പെക്റ്റിൽ അത് മാറുന്നുഭൌമശാസ്ത്രം പോലെവിവിധ ഭൌമശാസ്ത്രകാലത്ത് അന്തർലീനമായ ടോപ്പോഗ്രഫി മാറും അതേസമയം ഇക്കോളജിക്കൽ ടൈം അനുസരിച്ചാണ് നാച്ചുറൽ സിസ്റ്റം മാറുന്നത്പൊതുസ്ഥലം സഹസ്രാബ്ദങ്ങളിലുംപ്ലോട്ടുകളിൽ ഉള്ള മാറ്റങ്ങൾ നൂറ്റാണ്ടുകളിലായിരിക്കാം അത്പോലെ നിർമ്മിച്ച പരിസ്ഥിതിയിലെ വ്യത്യസ്ത പാളികളിലെ മാറ്റങ്ങളുടെ ആസ്പെക്ട് നമ്മൾ നോക്കുന്നു അതിനാൽ ഞാൻ ഇതുപോലെ ഉള്ള ഏകത്വതിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിഇക്കോളജിക്കൽ പരിസ്ഥിതിയും ഭൂമിശാസ്ത്രപരമായ ലാൻഡ്സ്കേപ്പും നിർമ്മിത പാരിസ്ഥിതിക ആസ്പെക്റ്റിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു പ്രത്യേകിച്ചും ദുരന്തത്തിന് മുമ്പുള്ള വികസനത്തിലും ദുരന്താനന്തര വികസനത്തിലുംഇനി നിങ്ങൾക്ക് നഗര രൂപകൽപ്പനയുടെ ആശയങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് തിയറി ഓഫ് റെസ്പോണ്ട്നമുക്ക് ഈ സ്പേസസ് എങ്ങനെ പരിശോധിക്കാം മുമ്പും ശേഷവും ഇത് എങ്ങനെ മാറുന്നു പിന്നെ ഒരു വശത്തു നിർമ്മിത പരിതസ്ഥിതിയിലെ സംസ്കാരത്തിന്റെ നിർമ്മിതികൾ ഉണ്ട് നിങ്ങൾക്ക് ലിം ന്റെ മോഡൽ ഓഫ് ജിയോഗ്രഫി ആൻഡ് ഇക്കോളജിക്കൽ എൻവായോൺമെന്റ്Lims model of geography and ecological environmentഉണ്ട് കുടുംബം ലിംഗഭേദം മതം സമ്പദ്വ്യവസ്ഥ ഇവ യഥാർത്ഥത്തിൽ സ്പേസുമായി എങ്ങനെ ഇടപഴകുന്നു എന്റെ അടുത്ത ചോദ്യം എത്ര കേസ് സ്റ്റഡീസ്ആയിരുന്നു ഒന്ന് രണ്ട് മൂന്ന് അതിനാൽ ഞാൻ ചെയ്തത് ഞാൻ തമിഴ്നാട്ടിൽ ചുറ്റി സഞ്ചരിച്ചു നാശനഷ്ടങ്ങളുടെ സ്ഥിതിവിവിവര കണക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളെ ബാധിച്ചു ഗ്രാമങ്ങൾ എന്തൊക്കെയാണ് എൻജിഒകൾNGOs എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവർ ചെയ്യുന്ന സമീപനങ്ങൾ എന്തൊക്കെയാണ്ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ അല്ലെങ്കിൽ ഒരു സ്ഥലംമാറ്റം ആണോ അതനുസരിച്ച് തമിഴ്നാട് തീരത്തെ 17 ഗ്രാമങ്ങൾ സന്ദർശിച്ചു പിന്നെ ഞാൻ യാത്ര ചെയ്യവേ എന്റെ പൈലറ്റ് പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകളിൽ ഒന്ന് ഭൂമിയിൽ മാത്രമല്ല ഭൂമിശാസ്ത്രവും വളരെ വ്യത്യസ്തമാണ് എന്നാൽ കടലും നിങ്ങളുടെ പാത നേരെയാകുന്നത് വരെ മാന്നാർ ഉൾക്കടലിനു താഴെ ആഴം കുറഞ്ഞ കടൽ വെള്ളമുണ്ട് ആഴക്കടൽ വെള്ളവും നിങ്ങൾക്ക് കാണാം ഭൂമിശാസ്ത്രം വടക്ക് ഭാഗത്ത് നിന്ന് കൂടുതൽ സമതലവും തെക്ക് ഭാഗത്തേക്ക് കൂടുതൽ കുന്നുകളുമാണ് ഭൂമിശാസ്ത്രത്തിന് പുറമേ സമൂഹവും വളരെ വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളിൽ ഞാൻ സന്ദർശിച്ച വടക്ക് ഭാഗത്തെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ കൂടുതലും ഹിന്ദുമത കേന്ദ്രീകൃതമാണ് നാഗപട്ടണം പ്രദേശത്ത് മുസ്ലീം ഹിന്ദു കൂടാതെ ചില ഡാനിഷ് സമുദായങ്ങളും ഇടകലർന്ന് താമസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൂടുതൽ തെക്കൻ ഭാഗത്ത് റോമൻ കത്തോലിക്കാ സമുദായങ്ങളിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നത് നിങ്ങൾ കാണുന്നു അങ്ങനെ ഞാൻ മൂന്ന് ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്തു ലൈറ്റ്ഹൌസ് കുപ്പം തരങ്കമ്പാടി കോവളംഈ മൂന്ന് ഗ്രാമങ്ങളിലും കോവളം ഒരു റോമൻ കത്തോലിക്കാ ഗ്രാമമാണ് തരംഗമ്പാടി ഹിന്ദു മുസ്ലീം ക്രിസ്ത്യൻ സമൂഹങ്ങൾ താമസിക്കുന്ന ഒരു മിശ്രിതമാണ് ലൈറ്റ്ഹൌസ് കുപ്പം ഒരു ദളിത് ഗ്രാമമാണ് അതൊരു ചെറിയ ദ്വീപാണ് ഇവിടെ ഈ സാമൂഹിക സാംസ്കാരിക ക്രമീകരണങ്ങൾ കൂടാതെവ്യത്യാസം വരുത്തുന്ന വികസന ക്രമീകരണങ്ങളും ഉണ്ട് ലൈറ്റ്ഹൌസ് കുപ്പത്ത് റിക്കവറി പ്രക്രിയയിൽ തമിഴ്നാട് സർക്കാർ പങ്കാളിയാണ് തരംഗമ്പാടിയിൽ മത്സ്യത്തൊഴിലാളി എൻജിഒകൾസൌത്ത് ഇന്ത്യൻ ഫിഷർമെൻ ഫെഡറേഷൻ സൊസൈറ്റികൾഎന്നിവ ഉൾപ്പെട്ടിരുന്നു കോവളത്ത് പ്രാദേശിക പഞ്ചായത്ത് ഉൾപ്പെട്ട പരമ്പരാഗത പള്ളി ഉൾപ്പെട്ടു അതിനാൽ വ്യത്യസ്ത വികസന ഇൻപുട്ടുകളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും അതിന്റെ ഫലം എങ്ങനെയായിരിക്കുമെന്നും ഞാൻ നോക്കുകയാണ് അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ ക്വാളിറ്റേറ്റീവ് സമീപനം നോക്കുകയായിരുന്നു തുടക്കത്തിൽ ഞാൻ ചോദ്യാവലിയിൽ തുടങ്ങിഎങ്ങനെയോ അത് വിജയിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ചോദ്യാവലികളിൽ നിന്ന് പുറത്തുകടന്നത് സംസ്കാരങ്ങളുടെ അന്തർലീനമായ ഡൈമൻഷനിലൂടെ നോക്കുമ്പോൾ ഞാൻ അത് കാണുന്നു നേരിട്ടും അല്ലാതെയും പങ്കാളിത്തമുള്ള ഫീൽഡ് നിരീക്ഷണം ഡോക്യുമെന്റേഷൻ റെക്കോർഡിംഗ് അഭിമുഖം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത രീതികൾ ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ അത് കമ്മ്യൂണിറ്റികളുമായും വികസന ഏജൻസികളുമായും സർക്കാർ അധികാരികളുമായും അർദ്ധ ഘടനാപരമായ അഭിമുഖങ്ങളായിരിക്കാം കൂടാതെ മാപ്പിംഗ് ജോലികളും ഈ രീതികൾ ക്രമീകരിക്കുന്നതിന് എനിക്ക് കുറച്ച് സമയമെടുത്തു കൂടാതെ ഞാൻ നിരവധി രീതികൾ ഉപയോഗിച്ചു ഉദാഹരണമായി സന്ദർഭത്തിനനുസരിച്ച് എനിക്ക് നിർമ്മിക്കണം ഞാൻ ഒരു കാറിൽ നേരിട്ട് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് കരുതി ആളുകൾ ഭയപ്പെട്ടു പ്രശ്നങ്ങളെക്കുറിച്ചു മാത്രമേ എന്നോട് സംസാരിക്കൂ അവർ ഒരിക്കലും എന്നോട് പരിഹാരങ്ങളെക്കുറിച്ചോ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ സംസാരിച്ചില്ല എങ്ങനെ കാര്യങ്ങൾ നടത്തി എനിക്ക് വ്യത്യസ്ത ഡാറ്റ ആണ് കിട്ടിയത് അതിനാൽ ഞാൻ ചെയ്തത് ചിലപ്പോൾ അവർ എനിക്ക് ഡാറ്റ നൽകാൻ മടിച്ചു ഞാൻ പള്ളിയിൽ പോയി ഫാദറുമായി ചർച്ച നടത്തി ദയവുചെയ്ത് എന്നെ അനുവദിക്കാമോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നെ അവർക്ക് പരിചയപ്പെടുത്തി തുടർന്ന് എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാ വീടുകളും എന്നെ ക്ഷണിച്ചുഅവർ ഡാറ്റ നൽകാൻ തുടങ്ങി അതിനാൽ സമീപിക്കുക എന്നതാണ് ഐഡിയഗവേഷണം നടത്തരുത് പഠനത്തിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന ആളുകൾക്കിടയിൽ ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ അത് പള്ളിയായാലും പഞ്ചായത്തായാലും മറ്റെന്തെങ്കിലും ആയാലും നിങ്ങൾ പ്രാദേശിക ഏജൻസിയെ സമീപിക്കണം എനിക്ക് പള്ളികളിൽ പോകേണ്ടി വരുന്നതുപോലെ എനിക്ക് ഗ്രൂപ്പ് ഇന്റർവ്യൂ എടുക്കണം പ്രത്യേകിച്ച് ലിംഗഭേദം ഉള്ളതിനാൽ പല സ്ത്രീകളും എന്നോട് തുറന്നുപറയുന്നില്ല കാരണം ഞാൻ ഒരു പുരുഷനാണ് അതിനാൽ എനിക്ക് തമിഴ് സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ നിയമിക്കണം എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയും തുടർന്ന് അവർ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു അതിനാൽ അതിനർത്ഥം ഞാൻ പഠിച്ച ഒരു ആശയവിനിമയ ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ നാട്ടിലുള്ള അഭിമുഖക്കാരോട് ചോദിച്ചപ്പോൾ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു പക്ഷേ യാത്ര ചെയ്യുന്പോൾ ഞാൻ മത്സ്യത്തൊഴിലാളിയായി ഏതാനും മാസങ്ങൾ ജീവിച്ചു ഞാൻ അവരുടെ അടുത്തേക്ക് പോയി രാവിലെ ഒമ്പത് മണിക്ക് അവരുടെ കടലിലേക്ക് പുലർച്ചെ നാല് മണിക്ക്അവർ ഒരുപാട് തുറന്ന് പറഞ്ഞുകാരണം അവർ കടലുമായി കൂടുതൽ ബന്ധമുള്ളവരാണ് പല കാര്യങ്ങളും അവർ തുറന്നു പറഞ്ഞു എങ്ങനെ അവർ സെറ്റിൽമെന്റിനെ മനസ്സിലാക്കി അപകട സാധ്യത യും മറ്റും തിരിച്ചറിയാൻ ഉള്ള അവരുടെ പരമ്പരാഗത അറിവുകൾ എങ്ങനെയാണ് എന്നൊക്കെ ചില മെന്റൽ മാപ് അഭ്യാസങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് തുടക്കത്തിൽ മാപ്പുകൾ എങ്ങനെ വരയ്ക്കാം എന്നതിന്റെ ടെക്നിക്കുകൾ ഞാൻ അവർക്ക് നൽകി അതായത് എങ്ങനെ നിങ്ങൾക്ക് സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും വ്യക്തതയുള്ള ഭൂപടങ്ങൾപക്ഷെ ചില കേസിൽ അവർ വരയ്ക്കാൻ പോലും ഭയപ്പെട്ടു തുടർന്ന് ഞാൻ മറ്റൊരു സാങ്കേതിക വിദ്യ സ്വീകരിച്ചു അത് ഞാൻ പിന്നീട് വിശദീകരിക്കും തമിഴ്നാട്ടിൽ നടന്നത് ജൂണിൽ തീരദേശ നിയന്ത്രണമാണ് അത് 1993 മുതൽ നിലവിലുണ്ട് 19 തവണ പരിഷ്ക്കരിച്ചുഎന്നാൽ അത് വരെ പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയില്ല അതിനാൽ സുനാമിക്ക് ശേഷം ഏജൻസികൾഇത് ഗൌരവമായി നടപ്പാക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി ഈ മത്സ്യബന്ധന സെറ്റ്ൽമെന്റുകൾതിരികെ മാറ്റാൻ അവർ ശ്രമിച്ചു ലാൻഡ്വാർഡ് സൈറ്റിന്റെ500 മീറ്റർ വരെ അവർ ഒന്നും നിർമ്മിക്കാൻ പാടില്ല പിന്നീട് യഥാർത്ഥത്തിൽ അവർ നിർദ്ദേശിച്ചു ഈ പ്രത്യേക കാര്യം പിന്നീട് ഭേദഗതി വരുത്തി തുടർന്ന് 200 മുതൽ 500 മീറ്റർ വരെ ചില പ്രദേശങ്ങളിൽ ചില നിർമ്മാണങ്ങൾക്ക് അവർ അനുവാദം കൊടുത്തു അതിനാൽ ഇത് ഭേദഗതി ചെയ്തു ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളിലും തിരികെ പോയി ഒരു ബദൽ ഭൂമി കണ്ടെത്തുന്നതിലും കണക്റ്റിവിറ്റി വശങ്ങളിലും ഇത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്നു പാർട്ട് 2 ലെ ലെക്ച്ചറിൽഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ലെക്ചർ എന്റെ സ്വന്തം വർക്കിന്റെഅടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് ഇവയാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ചില റഫറൻസുകൾ